ഈ സെഷനിലേക്ക് സ്വാഗതം പാത്ത് പരിശോധനയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും പാത്ത് പരിശോധനയിൽ ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നു അല്ലെങ്കിൽ പാത്ത് കവറേജ് നേടാൻ ഞങ്ങൾക്ക് ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് പാത്ത് കവറേജ് നേടുന്ന തരത്തിലുള്ള ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു പക്ഷേ എല്ലായ്പ്പോഴും ആ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നത് എല്ലായ്പ്പോഴും സാധ്യമാകണമെന്നില്ല എന്തുകൊണ്ടെന്ന് ഞങ്ങൾ കാണും പക്ഷേ കുറഞ്ഞത് നമുക്ക് ക്രമരഹിതമായി ഇൻപുട്ട് ആയ ടെസ്റ്റ് കേസുകളെങ്കിലും ഉണ്ടായിരിക്കണം പക്ഷേ ഞങ്ങൾ ചെയ്യും ഇത് ആവശ്യമാണ് ക്രമരഹിതമായ ഇൻപുട്ട് നമ്പറുകൾ ആവശ്യമായ പാത്ത് കവറേജ് കൈവരിക്കും അതിനാൽ പാത കവറേജിന്റെ ഡെഫിനീഷൻ എന്താണ് പാത്ത് കവറേജിന്റെ ഡെഫിനീഷൻ പ്രോഗ്രാമിലെ എല്ലാ ലീനിയർലി ഇന്ഡീപെൻഡെന്റ് പാതകൾ പ്രോഗ്രാം അനുസരിച്ച് നിർവ്വഹിക്കപ്പെടുന്നു പ്രോഗ്രാം എന്നത് ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് എന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ് അതിനാൽ ഫംഗ്ഷനിൽ എല്ലാ ലീനിയർലി ഇൻഡിപെൻഡെന്റ് പാതകളും പാത്ത് കവറേജ് നേടുന്നതിനുള്ള ടെസ്റ്റ് കേസുകൾ നിർവ്വഹിക്കുന്നു എന്നാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡെന്റ് എന്താണെന്ന ഈ ചോദ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു ഒരു പ്രോഗ്രാമിന്റെ കൺട്രോൾ ഫ്ലോ ഗ്രാഫിലാണ് ലീനിയർലി ഇൻഡിപെൻഡെന്റ് പാതകൾ നിർവചിച്ചിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾ ചർച്ചചെയ്യുന്ന കൺട്രോൾ ഫ്ലോ ഗ്രാഫ് പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ് ഈ ഗ്രാഫിന്റെ നോഡുകളായ പ്രോഗ്രാമിന്റെ ഒരു ഗ്രാഫ് പ്രാതിനിധ്യമാണ് ഇത് പ്രോഗ്രാമിലൂടെ കൺട്രോൾ ഫ്ലോ ക്രമത്തെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫ്ലോ നടപ്പിലാക്കുന്നു ലീനിയർ കൺട്രോൾ ട്രാൻസ്ഫർ നടക്കുന്ന ഒരു ട്രിവിയൽ പ്രോഗ്രാമിനായി ബ്രാഞ്ചുകൾ ഇല്ല അത് ഒരു ലീനിയർ ഗ്രാഫ് മാത്രമായിരിക്കും അതേസമയം റിയലിസ്റ്റിക് പ്രോഗ്രാമുകളിൽ ഇത് ഒരു സങ്കീർണ്ണ ഗ്രാഫ് ആയിരിക്കും ഒരു പ്രോഗ്രാമിനായി കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുവഴി ലിനെയാർലി ഇൻഡിപെൻഡെന്റ് പാതകളും അവയ്ക്ക് ആവശ്യമായ കവറേജും എന്താണെന്ന് ഞങ്ങൾക്ക് നിർവചിക്കാൻ കഴിയും അതിനാൽ ഒരു പ്രോഗ്രാമിനായി ഒരു കൺട്രോൾ ഫ്ലോ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം പ്രോഗ്രാമിലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഞങ്ങൾ നമ്പർ ചെയ്യണം കൂടാതെ ഓരോ പ്രോഗ്രാമിനും ഗ്രാഫിൽ ഒരു നോഡ് വരയ്ക്കണം കൂടാതെ ഒരു നോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺട്രോൾ കൈമാറ്റം സാധ്യമാണോ എന്ന് നോക്കേണ്ടതുണ്ട് ഞങ്ങൾ ഒരു എഡ്ജ് വരയ്ക്കുന്നു അതിനാൽ ഈ പ്രോഗ്രാമിനായി അത് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഗ്രാഫ് ഉണ്ടാകും പക്ഷേ നമുക്ക് ഒരു ഏകപക്ഷീയ പ്രോഗ്രാം നൽകുന്ന സിസ്റ്റെമാറ്റിക് സാങ്കേതികതയെക്കുറിച്ച് ചർച്ച ചെയ്യാം അതിനായി ഞാൻ എങ്ങനെ CFG വരയ്ക്കാം ഓരോ സ്ട്രക്ചർഡ് പ്രോഗ്രാമിലും മൂന്ന് തരം സ്റ്റേറ്റ്മെന്റുകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് നാം അറിയേണ്ടതുണ്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സീക്വൻസ് തരം സ്റ്റേറ്റ്മെന്റുകൾ അവ സീക്വൻസ് തരം സ്റ്റേറ്റ്മെന്റാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നു സെലക്ഷൻ തരം സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ ഇവ മാറുകയാണെങ്കിൽ അവ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുകളും ഐടെറേഷൻ സ്റ്റേറ്റ്മെന്റുകളും ആണ് അവ ഫോർ വൈൽ ടു വൈൽ ലൂപ്പുകൾ മുതലായവ ആണ് അതിനാൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്കൾ ആയി ബന്ധപ്പെട്ട ഫ്ലോ നമുക്ക് വരയ്ക്കാൻ കഴിയുമെങ്കിൽ CFGയിൽ ആവശ്യമായ എഡ്ജുകൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്കൾക്കായി ഫ്ലോ ഗ്രാഫ് നിയന്ത്രിക്കുക തുടർന്ന് നമുക്ക് പ്രോഗ്രാമിലൂടെ നോക്കാം കൂടാതെ ഓരോ സ്റ്റേറ്റ്മെൻറ് നും നമുക്ക് ആർബീട്രറി പ്രോഗ്രാം നൽകിയ എഡ്ജുകൾ വരയ്ക്കാൻ കഴിയും ഞങ്ങൾക്ക് CFG വരയ്ക്കാൻ കഴിയും ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ക്രമം നോക്കാം അതിനാൽ a 5 അത് എക്സിക്യൂട്ട് ചെയ്തയുടനെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സീക്വൻസ് തരം സ്റ്റേറ്റ്മെന്റാണ് ഇത് ഏറ്റവും എളുപ്പമാണ് അതിനാൽ ഒരാൾ b പൂർത്തിയാക്കിയാലുടൻ നിർവ്വഹിക്കും അതിനാൽ ഒരു മടിയും അവ്യക്തതയുമില്ല ഞങ്ങൾ 1 മുതൽ 2 വരെ ഒരു എഡ്ജ് വരയ്ക്കുന്നു ഇപ്പോൾ സെലെക്ഷൻ ഇവിടെ കഠിനമല്ല നമുക്ക് a b യെക്കാൾ വലുത് ആണെങ്കിൽ c 3 ആണ് അല്ലെങ്കിൽ c 5 ആണെങ്കിൽ തിരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള സ്റ്റേറ്റ്മെന്റ് സീക്വൻസ് തരം ആണ് ഇത് അതിനാൽ സ്റ്റേറ്റ്മെന്റിന്റെ സീക്വൻസ് തരം 1 മുതൽ 2 അല്ലെങ്കിൽ 3 ലേക്ക് കൺട്രോൾ ട്രാൻസ്ഫറുകൾ വളരെ അവബോധജന്യമാണ് കൂടാതെ 2 അല്ലെങ്കിൽ 3 പൂർത്തിയായാൽ ഉടൻ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്ലേക്ക് പോകും അതിനാൽ ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് തികച്ചും അവബോധജന്യമാണ് അതിനനുസൃതമായ CGF നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും പക്ഷേ അല്പം സങ്കീർണ്ണമായതോ അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാക്കൽ ആവശ്യമുള്ളതോ ഐടെറേഷൻ ആണ് അതിനാൽ ഇവിടെ ചില കണ്ടിഷനുകളും രണ്ട് സ്റ്റേറ്റ്മെൻറ്കളും ലൂപ്പിൽ ഉണ്ട് തുടർന്ന് ഒരു സീക്വൻസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനാൽ ഞങ്ങൾ ഇവ 1 2 3 4 എന്ന് അക്കമിട്ടു കൺട്രോൾ 1 ഇൽ നിന്ന് 2 2 ഇൽ നിന്ന് 3 വരെ വരാം അതിനാൽ ശരി എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ എക്സ്പ്രഷൻ ശരിയാണെന്ന് വിലയിരുത്തുന്നു അത് കൺട്രോൾ 1 മുതൽ 2 2 വരെ വരുന്നു 3 ലേക്ക് എന്നാൽ ഇവിടെ നിരീക്ഷിക്കേണ്ട പ്രധാന കാര്യം 3 മുതൽ കൺട്രോൾ 4 ന് ശേഷം 3 ന് ശേഷം ലൂപ്പ് എക്സ്പ്രഷൻ വിലയിരുത്തപ്പെടുന്നു എന്നതാണ് അതിനാൽ 3 ന് ശേഷം ഞങ്ങൾ ഈ എഡ്ജ് വരച്ചു അങ്ങനെ ഐടെറേഷന്റ്റെ അവസാനം ലൂപ്പ് എക്സ്പ്രഷൻ വിലയിരുത്തുകയും ലൂപ്പ് എക്സ്പ്രഷൻ തെറ്റായി മാറുകയാണെങ്കിൽ കൺട്രോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്ലേക്ക് മാറ്റുകയും ചെയ്യും അതിനാൽ പലരും ഈ തെറ്റ് ചെയ്യുന്നു കാരണം അവർ 3 മുതൽ 4 വരെ കൺട്രോൾ ട്രാൻസ്ഫർ വരയ്ക്കുന്നു എന്നാൽ മൂന്നിൽ നിന്ന് നാല് വരെയുള്ള കൺട്രോൾ ട്രാൻസ്ഫർ സംഭവിക്കുന്നില്ല അത് വരയ്ക്കരുത് അതിനാൽ മൂന്നിൽ നിന്ന് എല്ലായ്പ്പോഴും ലൂപ്പ് എക്സ്പ്രഷൻ വിലയിരുത്തുകയും ഒരിക്കൽ ലൂപ്പ് എക്സ്പ്രഷൻ വിലയിരുത്തുകയും ചെയ്താൽ അത് തെറ്റായി വിലയിരുത്തുകയാണെങ്കിൽ എഡ്ജ് ഇവിടെ 4 ലേക്ക് വലിച്ചിടുകയും ഒരു കൺട്രോൾ ഫ്ലോ ഗ്രാഫിൽ ഇത് ശരിയാണോ അതോ ഇത് എന്ന് വിലയിരുത്തുന്ന വ്യവസ്ഥകൾ ഞങ്ങൾ എഴുതുകയുമില്ല ഒരു ഫ്ലോ ചാർട്ടിൽ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വിലയിരുത്തുന്നു പക്ഷേ കൺട്രോൾനു ഒരു നോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറാൻ കഴിയുന്നിടത്തോളം കാലം ഞങ്ങൾ എഡ്ജ് വരയ്ക്കുന്നു ഇനി നമുക്ക് ഒരു പാതയുടെ ഡെഫിനീഷൻ നോക്കാം കൺട്രോൾ ഫ്ലോ ഗ്രാഫിലെ സ്റ്റാർട്ട് നോഡിൽ നിന്ന് ഒരു ടെർമിനൽ നോഡിലേക്കുള്ള ഒരു നോഡ് എഡ്ജ് സീക്വൻസാണ് ഒരു പാത്ത് അതിനാൽ പ്രോഗ്രാമിലെ സ്റ്റാർട്ട് നോഡിൽ നിന്ന് ഒരു ടെർമിനൽ നോഡിലേക്ക് ആരംഭിക്കുന്ന നോഡ് എഡ്ജ് ജോഡികളുടെ ഒരു ശ്രേണി ഇതാണ് പാത്ത് എന്ന് വിളിക്കുന്നത് കൂടാതെ എക്സിറ്റ് കാരണം അത്തരം പ്രോഗ്രാമുകളിൽ നിരവധി ടെർമിനൽ നോഡുകൾ ഉണ്ടാകാമെന്നും ഓർമ്മിക്കുക അതിനാൽ ഒരു കാര്യം ലൂപ്പുകളുടെ സാന്നിധ്യത്തിൽ പാത്ത്കളുടെ എണ്ണം വളരെ വലുതായിത്തീരും കാരണം ഇത് ഞങ്ങൾ ചർച്ച ചെയ്ത പ്രോഗ്രാമിന്റെ സ്റ്റാർട്ട് നോഡ് മുതൽ എൻഡ് നോഡ് വരെയുള്ള നോഡുകളുടെ ഏതെങ്കിലും ശ്രേണിയാണ് നമുക്ക് ഈ ഐടെറേഷൻ നോക്കാം അതിനാൽ 1 4 ഒരു പാതയായിരിക്കും 1 2 3 4 ഒരു പാതയായിരിക്കും 1 2 3 1 2 3 4 ഒരു പാത 1 2 3 1 2 3 1 2 3 കൂടാതെ 4 എന്നിവ ഒരു പാതയായിരിക്കും അതിനാൽ ലൂപ്പിന്റെ ഓരോ ആവർത്തനത്തിനും ഒരു പുതിയ പാത്ത് ഉണ്ടാകും നിങ്ങൾക്ക് ലൂപ്പിലെ എല്ലാ പാത്തുകളും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം ഞങ്ങൾ ഭംഗിയായി നിർവഹിക്കും ഏതെങ്കിലും പ്രായോഗിക പ്രോഗ്രാമിന് എല്ലാ പാത്ത് ടെസ്റ്റിംഗും നേടാൻ കഴിയില്ല അപ്രായോഗികമാണ് അതിനാലാണ് ഒരു ലിനെയാർലി ഇൻഡിപെൻഡെന്റ് പാത്തിനെക്കുറിച്ചുള്ള ഈ ധാരണയെ ഞങ്ങൾ നിർവചിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് എല്ലാ പാത്ത് ടെസ്റ്റിംഗുകളും പോലെ ടെസ്റ്റിംഗിലൂടെ ഏതാണ്ട് എഡ്ജ് കൈവരിക്കും പക്ഷേ കൈകാര്യം ചെയ്യാവുന്ന എണ്ണം ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് അതിനാൽ ഒരു ലിനെയാർലി ഇൻഡിപെൻഡെന്റ് സെറ്റ് അപ്പ് പാത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം തുടർന്ന് ഈ ലിനെയാർലി ഇൻഡിപെൻഡെന്റ് സെറ്റ് അപ്പ് പാത്തുകളുടെ കവറേജ് ഞങ്ങൾക്ക് ആവശ്യമാണ് അതിനാൽ നമുക്ക് p 1 മുതൽ p n വരെ ഉണ്ടെങ്കിൽ അത് ഒരു പാത്ത് ആണ് P എന്നത് p 1 മുതൽ p n വരെയുള്ള പാത്ത് ന്റ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണെന്ന് ഞങ്ങൾ പറയുന്നു നമുക്ക് a 1 മുതൽ n വരെ ഇന്റീജർ ഉണ്ടെങ്കിൽ p i a i p i എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനിൽ ഒരു പാത്ത് p ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അർഥം പാത്ത് എന്നത് നോഡുകളുടെയും എഡ്ജ്കളുടെയും ഒരു സെറ്റ് ആണെന്നാണ് അതിനാൽ ഒരു പാത്ത് ഒരു ലീനിയർ അഡിഷൻ ആണെങ്കിൽ രണ്ട് പാത്തുകളുടെ കൂട്ടിച്ചേർക്കലാണ് അത് ഒരു ലിനെയാർലി ഇന്ഡീപെൻഡെന്റ് പാത്ത് അല്ല അതിനാൽ സെറ്റിലെ മറ്റ് പാത്തുകളുടെ ലീനിയർ സംയോജനത്തോടെ ഒരു പാത്തും സജ്ജമാക്കിയിട്ടില്ലെങ്കിൽ ഒരു കൂട്ടം പാത്ത് ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ ഒരു പാത്തിലെ ഓരോ പാത്തും കുറഞ്ഞത് ഒരു എഡ്ജ് എങ്കിലും സെറ്റിലെ മറ്റ് പാത്തുകളുടെ ലീനിയർ കോമ്പിനേഷനിലൂടെ ലഭിക്കില്ലെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ ഏതൊരു പാത്തും ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ ഒരു കൂട്ടം പാത്തിലായിരിക്കില്ല സെറ്റിലെ മറ്റ് ഭാഗങ്ങളുടെ പാത്തുകളുടെ ഒരു ലീനിയർ സംയോജനത്തിലൂടെ ലഭിക്കില്ല മറ്റ് പാത്തുകളിൽ ഉൾപ്പെടാത്ത ഒരു എഡ്ജ് എങ്കിലും ഉണ്ടായിരിക്കും അതിനാൽ ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ പാത്തുകളുടെ നിർവചനം അതാണ് ഇപ്പോൾ നമുക്ക് ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ ഒരു കൂട്ടം പാത്തിന്റെ ഉദാഹരണം നോക്കാം നമുക്ക് ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ പാത്തുകൾ നോക്കിയാൽ ഇവിടെ നമുക്ക് 1 4 ഉണ്ടെങ്കിൽ 1 സ്റ്റാർട്ട് നോഡ് ആണെങ്കിൽ 4 ടെർമിനൽ നോഡ് 1 4 ആണ് ഒരു പാത്ത് 1 2 3 4 ഒരു പാത്ത് ആണ് പക്ഷേ അവ ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ പാത്തല്ല കാരണം രണ്ടാമത്തേത് ഒരു പുതിയ എഡ്ജ് അവതരിപ്പിക്കുന്നില്ല അതിനാൽ പ്രോഗ്രാമിലൂടെയുള്ള ഏതൊരു പാത്തും മറ്റ് ഇൻഡിപെൻഡെന്റ് പാത്തുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പുതിയ എഡ്ജ് എങ്കിലും ഞങ്ങൾ അതിനെ ഒരു ഇൻഡിപെൻഡെന്റ് പാത്ത് എന്ന് വിളിക്കും ഇപ്പോൾ അഞ്ച് വരികളോ ഏഴ് വരികളോ ഉള്ള ഒരു ചെറിയ പ്രോഗ്രാം നൽകിയാൽ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ പാത്തുകളെ തിരിച്ചറിയാൻ കഴിയും പക്ഷേ പ്രോഗ്രാമിൽ 20 അല്ലെങ്കിൽ 30 നോഡുകളും 50 എഡ്ജ്കളും ഉണ്ടെങ്കിൽ അത് വളരെ സങ്കീർണ്ണമാകും ഗ്രാഫിലൂടെ നോക്കാനും ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ പാത്തുകൾ എന്താണെന്ന് കണ്ടെത്താനും 20 സ്റ്റേറ്റ്മെന്റുകളുള്ള ഒരു പ്രോഗ്രാമിനായി ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ പാത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 ആഴ്ച ചെലവഴിക്കാൻ കഴിയും അതിനാൽ ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ ഒരു കൂട്ടം പാത്തുകളെ തിരിച്ചറിയാൻ ആരും ശരിക്കും ശ്രമിക്കുന്നില്ല പക്ഷേ പാത്ത് പരിശോധനയിൽ ഞങ്ങൾ ഈ ആശയം ഉപയോഗിക്കുന്നു അതിനാൽ ഞങ്ങൾ എങ്ങനെ പാത്ത് പരിശോധന നടത്തും മക്കേബിന്റെ സൈക്ലോമാറ്റിക് മെട്രിക്കിനെക്കുറിച്ച് McCabe's Cyclomatic Metric ഞങ്ങൾക്ക് ഈ ധാരണയുണ്ട് ഒരു കൺട്രോൾ ഫ്ലോ ഗ്രാഫ് നൽകിയാൽ കണക്കുകൂട്ടാൻ സൈക്ലോമാറ്റിക് മെട്രിക് വളരെ എളുപ്പമാണ് ഗ്രാഫ് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് മെട്രിക് കണക്കുകൂട്ടാൻ കഴിയും അല്ലെങ്കിൽ കൺട്രോൾ ഫ്ലോ ഗ്രാഫിൽ നിന്ന് മക്കാബിന്റെ സൈക്ലോമാറ്റിക് മെട്രിക് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാം കോഡ് നൽകിയാൽ ആവശ്യമെങ്കിൽ കൺട്രോൾ ഫ്ലോ ഗ്രാഫും മക്കാബിന്റെ മെട്രിക്കും കൺട്രോൾ ഫ്ലോ ഗ്രാഫിന്റെ വിഷ്വൽ നിരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കും നമ്പർ മക്കാബ് മെട്രിക്കും പ്രദർശിപ്പിക്കും അതിനാൽ മക്കാബിന്റെ മെട്രിക് യഥാർത്ഥത്തിൽ ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ പാത്തുകളുടെ എണ്ണത്തിൽ ഒരു ബന്ധനമാണ് അതിനാൽ മക്കാബിന്റെ മെട്രിക് ഞങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രോഗ്രാമിൽ എത്ര പാത്തുകളാണ് തിരയേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം മക്കാബിന്റെ മെട്രിക് 10 10 ലേക്ക് വിലയിരുത്തുന്നുവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരമാവധി 10 ലിനെയാർലി ഇൻഡിപെൻഡെന്റ് ആയ പാത്തുകൾക്കായി നോക്കും അതിനാൽ നമുക്ക് മക്കാബിന്റെ മെട്രിക് കണക്കുകൂട്ടാൻ കഴിയുമെങ്കിൽ പാത്ത് കവറേജ് നേടാൻ എത്ര ടെസ്റ്റ് കേസുകൾ ആവശ്യമാണെന്ന് അത് നമ്മോട് പറയുന്നു ഇപ്പോൾ നമുക്ക് CFG ഉണ്ടെങ്കിൽ മക് കേബിന്റെ മെട്രിക് എങ്ങനെ കണക്കുകൂട്ടാം എന്ന് നോക്കാം ഗ്രാഫിലെ എഡ്ജ്കളുടെ എണ്ണം മൈനസ് നോഡുകൾ പ്ലസ് 2 എന്നിങ്ങനെ കണക്കാക്കിയാൽ നമുക്ക് സൈക്ലോമാറ്റിക് മെട്രിക് e n 2 ലഭിക്കും അതിനാൽ തന്നിരിക്കുന്ന പ്രോഗ്രാം ഓട്ടോമേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ് ഞങ്ങൾക്ക് കൺട്രോൾ ഫ്ലോ ഗ്രാഫ് എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും കൂടാതെ കൺട്രോൾ ഫ്ലോ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് സൈക്ലോമാറ്റിക് മെട്രിക് നൽകുന്ന നോഡുകളുടെ എഡ്ജ്കളുടെ എണ്ണം പ്ലസ് 2 കണക്കുകൂട്ടാം അതിനാൽ ഈ ഗ്രാഫിനായി സൈക്ലോമാറ്റിക് മെട്രിക് 7 എഡ്ജ്കളും 6 നോഡുകളുമുണ്ട് 7 62 3 ആണ് സൈക്ലോമാറ്റിക് മെട്രിക് കണക്കുകൂട്ടുന്നതിനുള്ള മറ്റ് വഴികളുമുണ്ട് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ നോക്കിയ രീതി e n 2 അത് ഓട്ടോമേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ് ഒരു CFG അത് എന്താണ് സൈക്ലോമാറ്റിക് സങ്കീർണ്ണത എന്ന് പറയുക ഞങ്ങൾ അത് എങ്ങനെ ചെയ്യും ഇവിടെ ഞങ്ങൾ ഗ്രാഫ് നോക്കുകയും മൊത്തം ബൌണ്ടഡ് ഏരിയകളുടെ എണ്ണം എത്രയാണെന്നും എത്ര ബൌണ്ടഡ് ഏരിയകൾ ആണ് ഉള്ളതെന്ന് പ്ലസ് വൺ സൈക്ലോമാറ്റിക് മെട്രിക് നൽകുകയും ബൌണ്ടഡ് ഏരിയയുടെ ഡെഫിനീഷൻ നോഡുകളും എഡ്ജ്കളും കൊണ്ട് ക്രമത്തിൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആണ് ഈ സംഖ്യ e n 2 ഉപയോഗിച്ച് കണക്കാക്കിയ നമ്പറുമായി കൃത്യമായി പൊരുത്തപ്പെടണം ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം അതിനാൽ എത്ര ബൌണ്ടഡ് ഏരിയകൾ ഉണ്ട് ഇവിടെ നമുക്ക് ഒരു ബൌണ്ടഡ് ഏരിയയും ഇവിടെ മറ്റൊരു ബൌണ്ടഡ് ഏരിയയും ഉണ്ടെന്ന് നോക്കാം അതിനാൽ രണ്ട് ബൌണ്ടഡ് ഏരിയകൾ ഉണ്ട് അതിനാൽ ബൌണ്ടഡ് ഏരിയകളുടെ എണ്ണം പ്ലസ് 1 3 ന് തുല്യമാണ് അത് നമുക്ക് ലഭിച്ച e n 2 ഫലത്തിന് തുല്യമാണ് അത് 3 7 6 2 ആയി വിലയിരുത്തി അതിനാൽ ബൌണ്ടഡ് ഏരിയകളുടെ എണ്ണം 2 ഉം സൈക്ലോമാറ്റിക് സങ്കീർണ്ണത 3 ഉം ആണ് മക് കേബിന്റെ മെട്രിക് ഇത് പരിശോധന ബുദ്ധിമുട്ടും വിശ്വാസ്യതയും നൽകുന്നു അതിനാൽ ഒരു പ്രോഗ്രാമിനുള്ള സൈക്ലോമാറ്റിക് മെട്രിക് 50 ആണെന്ന് നമുക്കറിയാമെങ്കിൽ ഇതിന് ഞങ്ങൾക്ക് കുറഞ്ഞത് 50 ടെസ്റ്റ് കേസുകളെങ്കിലും ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം കൂടാതെ 50 ടെസ്റ്റ് കേസുകൾ ആവശ്യമുള്ളതിനാൽ ഈ പ്രോഗ്രാം വളരെ സങ്കീർണ്ണമാണെന്ന് നമുക്കറിയാം അതിനാൽ ടെസ്റ്റിംഗ് ശ്രമം ആവശ്യമാണ് വളരെ ഉയർന്നതായിരിക്കണം കൂടാതെ 50 ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ച് പരീക്ഷിച്ചതിനുശേഷവും ബഗുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ 50 ടെസ്റ്റ് കേസുകൾ 50 മക്കാബിന്റെ മെട്രിക് സൂചിപ്പിക്കുന്നത് അവിടെ ധാരാളം ബ്രാഞ്ച്കൾ ഉണ്ടെന്നും കോഡ് നല്ലതല്ലെന്നും സാധാരണയായി കമ്പനികൾ കോഡ് 10 മക് കേബിന്റെ മെട്രിക്കിൽ കുറവായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതിനാൽ സൈക്ലോമാറ്റിക് മെട്രിക് e n2 കണക്കുകൂട്ടുന്നതിനുള്ള ആദ്യ രീതി ഓട്ടോമേറ്റ് ചെയ്യുന്നത് നല്ലതാണ് e n2 ഉപയോഗിച്ച് സൈക്ലോമാറ്റിക് സങ്കീർണ്ണത കണക്കാക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം എഴുതുക ഇൻഡിപെൻഡെന്റ് പാത്തുകളുടെ കവറേജ് ഉറപ്പുനൽകുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ സൈക്ലോമാറ്റിക് മെട്രിക് നിർണ്ണയിക്കാൻ മറ്റൊരു വഴിയുണ്ട് പ്രോഗ്രാമിലൂടെ നോക്കുക CFG നോക്കേണ്ട ആവശ്യമില്ല പ്രോഗ്രാം ദൃശ്യപരമായി പരിശോധിക്കുക എത്ര ബ്രാഞ്ച് എക്സ്പ്രഷനുകൾ ഉണ്ടെന്ന് കണ്ടെത്തുക അവിടെ പ്ലസ് 1 നിങ്ങൾക്ക് സൈക്ലോമാറ്റിക് മെട്രിക് നൽകും പ്രോഗ്രാമിലൂടെ നോക്കൂ എത്ര ബ്രാഞ്ച് എക്സ്പ്രഷനുകൾ ഉണ്ട് എത്ര തരം സ്റ്റേറ്റ്മെൻറ്കൾ ഉണ്ടെങ്കിലും പ്ലസ് വൺ സൈക്ലോമാറ്റിക് മെട്രിക് ആയിരിക്കും എന്നാൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം സൈക്ലോമാറ്റിക് മെട്രിക് അറിയുക എന്നതാണ് എത്ര പാത്തുകൾ ഉണ്ട് എത്ര ലിനെയാർലി ഇൻഡിപെൻഡെന്റ് പാത്തുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ആവശ്യമായ പാത്തുകളുടെ എണ്ണം അറിഞ്ഞിട്ടും നമുക്ക് ആ പാത്തുകൾ അറിയില്ല CFGയിലെ കോഡിൽ ആ ഭാഗങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ് പക്ഷേ ആ പാത്തുകൾ കണ്ടെത്താൻ ഞങ്ങളുടെ പരിശോധന ആവശ്യമില്ല ഒരു പാത്ത് ടെസ്റ്റിംഗിന് ആ പാത്തുകൾ കണ്ടെത്താനും അത് നടപ്പിലാക്കാൻ ടെസ്റ്റ് കേസുകൾ എഴുതാനും ഞങ്ങൾക്ക് ആവശ്യമില്ല റാൻഡം ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ സാധാരണയായി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നാൽ പാത്ത് കവറേജ് എന്താണ് നേടിയതെന്ന് ഞങ്ങൾ അളക്കാൻ ശ്രമിക്കുന്നു ഉയർന്ന പാത്ത് കവറേജ് നേടുന്നിടത്തോളം കാലം പാത്ത് കവറേജ് പാത്ത് പരിശോധന നടത്തിയെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ സൈക്ലോമാറ്റിക് സങ്കീർണ്ണത വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് കോഡിന്റെ ഗുണനിലവാരം അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അന്തിമ വിശ്വാസ്യത എന്താണെന്നും ടെസ്റ്റിംഗ് പരിശ്രമം പ്രോഗ്രാം പരീക്ഷിക്കാൻ ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം എന്നിവയെക്കുറിച്ചും ഇത് നമ്മോട് പറയുന്നു അതിനാൽ പ്രാക്റ്റികൽ പാത്ത് പരിശോധന അനുഭവത്തിൽ നിന്നും ജഡ്ജ്മെന്റ് ഇൽ നിന്നും ടെസ്റ്റ് ഡാറ്റയുടെ പ്രാരംഭ സെറ്റ് ടെസ്റ്റർ നിർദ്ദേശിക്കുന്നു തുടർന്ന് ഡൈനാമിക് പ്രോഗ്രാം അനലൈസർ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ ഉപകരണം ഞങ്ങളുടെ പക്കലുണ്ട് ഡൈനമിക് പ്രോഗ്രാം അനലൈസർ യഥാർത്ഥത്തിൽ എത്ര ലീനിയർ ഇൻഡിപെൻഡൻറ് പാത്തുകൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് പ്രദർശിപ്പിക്കുന്നു അത്തരമൊരു പ്രോഗ്രാം എഴുതുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ ഒരു ചെറിയ കോഡ് നൽകിയാൽ നമുക്ക് ജനറേറ്റുചെയ്യാൻ ഒരു പ്രോഗ്രാം എഴുതാം അതിന്റെ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് നോഡുകൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ്മെന്റുകളാണ് കൂടാതെ സ്റ്റേറ്റ്മെന്റിന്റെ തരം അനുസരിച്ച് എഡ്ജ്കൾ എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഒരിക്കൽ നമുക്ക് CFG പ്രോഗ്രാം നിർവ്വഹിക്കുന്നു ടെസ്റ്റ് കേസുകൾ എടുക്കുന്ന എഡ്ജ്കൾ എന്താണെന്നും ടെസ്റ്റ് കേസുകൾ നടപ്പിലാക്കുന്ന എഡ്ജ്കൾ എന്താണെന്നും ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു കൂടാതെ ടെസ്റ്റ് കേസ് കുറഞ്ഞത് ഒരു പുതിയ എഡ്ജ് നടപ്പിലാക്കുന്നിടത്തോളം കാലം ഒരു പുതിയ പാത്ത് നടപ്പിലായതായി നമുക്കറിയാം ഒരു പ്രോഗ്രാം കോഡിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ നേടാനാകുന്ന ഒരു CFG നൽകിയാൽ മക്കാബിന്റെ മെട്രിക്കിന്റെ പാത്തുകളുടെ എണ്ണം ഞങ്ങൾക്കറിയാം തുടർന്ന് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിർണ്ണയിക്കാനാകും ടെസ്റ്റ് കേസുകളിൽ ഉൾപ്പെടുന്ന പാത്തുകളുടെ എണ്ണം നിർണ്ണയിക്കാനാകും തുടർന്ന് ഞങ്ങൾ നേടിയ ശതമാനം പാത്ത് കവറേജ് നിർണ്ണയിക്കാൻ കഴിയും എന്നാൽ വളരെ ചെറിയ പ്രോഗ്രാമുകൾക്ക് മാത്രം ഓരോ പാത്തിലും എക്സിക്യൂഷൻ നിർബന്ധിതമാക്കാൻ നമുക്ക് ടെസ്റ്റ് കേസുകൾ പോലും തയ്യാറാക്കാം പക്ഷേ ഇത് വലിയ പ്രോഗ്രാമുകൾക്ക് പ്രായോഗികമല്ല അതിനാൽ ചെറിയ പ്രോഗ്രാമുകൾക്കായി സൈക്ലോമാറ്റിക് സങ്കീർണ്ണത എന്താണ് ലിനെയാർലി ഇൻഡിപെൻഡൻറ് പാത്തുകളുടെ ഗണം നിർണ്ണയിക്കുന്നതെന്ന് ഞങ്ങൾ ആദ്യം നിർണ്ണയിക്കുകയും തുടർന്ന് ഈ പാത്തുകൾ നടപ്പിലാക്കുന്ന ടെസ്റ്റ് കേസുകൾ ഡിസൈൻ ടെസ്റ്റ് കേസുകൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരേ ഉദാഹരണ കോഡ് മാത്രമാണ് തുടർന്ന് രണ്ട് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്കൾ ഉണ്ടെന്ന് ഞങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ ഇത് സൈക്ലോമാറ്റിക് സങ്കീർണ്ണത 3 ആണ് അതിനാൽ നമുക്ക് മൂന്ന് പാത്തുകൾ വരെ പ്രതീക്ഷിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ രണ്ട് ലിനെയാർലി ഇൻഡിപെൻഡൻറ് പാത്തുകൾ മാത്രം ആണ് ഉള്ളത് അതിനാൽ 1 2 3 5 1 6 1 2 4 5 1 6 അതിനാൽ ഇവ രണ്ട് ഇൻഡിപെൻഡൻറ് പാത്തുകൾ ആണ് മറ്റേതെങ്കിലും പാത്തുകൾ ആ രണ്ട് പാത്തുകളുടെയും ലീനിയർ സംയോജനമാണ് അതിനാൽ നമുക്ക് ടെസ്റ്റ് കേസുകൾ x 1 ന് തുല്യമാണ് y 1 ന് തുല്യമാണ് x 1 ന് തുല്യമാണ് y 2 ന് തുല്യമാണ് മുതലായവ ഒരു ചെറിയ പ്രോഗ്രാം 3 ലൈൻ അല്ലെങ്കിൽ 4 ലൈൻ പ്രോഗ്രാമിനായി ആ ടെസ്റ്റ് കേസുകൾ നടപ്പിലാക്കും നമുക്ക് എളുപ്പത്തിൽ CFG വരയ്ക്കാനും ടെസ്റ്റ് കേസുകളുടെ എണ്ണത്തിൽ ഉയർന്ന പരിധി നൽകുന്ന മക്കാബിന്റെ മെട്രിക് കണ്ടെത്താനും തുടർന്ന് ഞങ്ങൾ ആ ടെസ്റ്റ് കേസുകൾ എഴുതുകയും പാത്തുകൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം ഇപ്പോൾ സൈക്ലോമാറ്റിക് സങ്കീർണ്ണതയുടെ രസകരമായ പ്രയോഗം നോക്കാം ഒരു കോഡിനായുള്ള മക് കേബിന്റെ മെട്രിക് സൂചിപ്പിക്കുന്നത് കോഡ് പരീക്ഷിച്ചതിനുശേഷം അതിൽ എത്ര പിശകുകൾ പ്രവർത്തിക്കുമെന്ന് ആ കോഡിൽ എത്ര പിശകുകൾ ഉണ്ടാകുമെന്നത് സൂചിപ്പിക്കുന്നത് ഈ കോഡ് ഒരു മൂന്നാം വ്യക്തിക്ക് എത്ര പരിശ്രമം നൽകിയെന്ന് സൂചിപ്പിക്കുന്നു അവൻ കോഡ് മനസ്സിലാക്കണം അതിനാൽ പ്രോഗ്രാമിന്റെ മനശാസ്ത്രപരമായ സങ്കീർണ്ണതയുടെയോ ഈ പ്രോഗ്രാമിന്റെ ബുദ്ധിമുട്ടുള്ള നിലയുടെയോ അളവുകോലാണ് മക്കാബിന്റെ മെട്രിക് അതിനാൽ ഈ കോഡ് വികസനവുമായി ബന്ധമില്ലാത്ത ഒരു സ്വതന്ത്ര വ്യക്തി അവനു കൊടുക്കുകയും കോഡ് മനസ്സിലാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ ഈ കോഡ് മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ശ്രമം സൈക്ലോമാറ്റിക് സങ്കീർണ്ണതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൈക്ലോമാറ്റിക് സങ്കീർണ്ണത 50 ആണെങ്കിൽ കോഡ് മനസ്സിലാക്കാൻ അയാൾ ഗണ്യമായ പരിശ്രമം നടത്തേണ്ടിവരും അത് 10 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 1 ആണെങ്കിൽ കോഡ് മനസ്സിലാക്കാൻ അയാൾ വളരെ കുറച്ച് സമയം ചെലവഴിക്കേണ്ടിവരും എന്തുകൊണ്ടാണത് ഒരു കോഡ് മനസ്സിലാക്കാൻ അയാൾക്ക് ധാരാളം സമയം ചിലവഴിക്കേണ്ടിവരുന്നതിന്റെ കാരണം എന്താണ് സൈക്ലോമാറ്റിക് സങ്കീർണ്ണത വലുതാണെങ്കിൽ ഒരു കോഡ് മനസിലാക്കാൻ കോഡിലെ എല്ലാ ലിനെയാർലി ഇൻഡിപെൻഡൻറ് പാത്തുകളും ഞങ്ങൾ കണ്ടെത്തുന്നു ഞങ്ങൾ ഔട്ട്പുട്ട് നോക്കി ഏതൊക്കെ ഇൻപുട്ടുകൾ ഇവ ഉൽപാദിപ്പിക്കുന്നുവെന്ന് കാണാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറ്റ് സമീപനങ്ങളിൽ ഞങ്ങൾ നോക്കുന്നത് ഇൻപുട്ട് ചെയ്ത് പ്രോഗ്രാമിനെക്കുറിച്ചുള്ള ഈ രണ്ട് തരത്തിലുള്ള ധാരണകളിലും ഉൽപാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് കാണും പ്രോഗ്രാമിലെ പാത്തുകൾ ഞങ്ങൾ അബോധപൂർവ്വം കടന്നുപോകുന്നു അതിനാൽ കോഡ് മനസിലാക്കുന്നതിലൂടെ പ്രോഗ്രാമിലൂടെ എല്ലാ പാത്തുകളും സഞ്ചരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടും പാത്തുകൾ കൂടുതൽ വ്യക്തമാണെങ്കിൽ കോഡിലെ എല്ലാ പാത്തുകളിലൂടെയും സഞ്ചരിക്കാൻ ദീർഘനേരം ചെലവഴിക്കേണ്ടിവരും അതിനാൽ ഈ സെഷനിൽ ഞങ്ങൾ ഈ സെഷൻ നിർത്തും അടുത്ത സെഷനിൽ ഞങ്ങൾ തുടരും